നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന കോഴ്സിലെ ഒൻപതാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ച്ചറിൽ കൊളാജെനെ അടിസ്ഥാനപ്പെടുത്തി ECM ശൃംഖലകളുടെ റിയോളജിക്കൽ സവിശേഷതകളെ കുറിച്ച് നമ്മൾ വിശദമായ ചർച്ച നടത്തിയിരുന്നു ബയോപോളിമർ ശൃംഖലകളിൽ നാം പരിചയപ്പെട്ട ഏറ്റവും പരമപ്രധാനമായ ഒരു സങ്കേതമായിരുന്നു സ്ട്രെങ്ത് സ്റ്റിഫെനിങ് ഒരു പരിധിക്കപ്പുറം ഫോഴ്സ് ചെലുത്തുമ്പോൾ ശൃംഖലകളിൽ പ്രകടമാകുന്ന ദൃഢതയാണിത് അതിരൂക്ഷമായ ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുമ്പോൾ സംയോജിത കോശങ്ങളിലും മറ്റ് സുപ്രധാന ശൃംഖലകളിലും സംഭവിക്കാനിടയുള്ള കേടുപാടുകൾ പ്രതിരോധിക്കാൻ ഉതകുന്ന സ്വതസിദ്ധമായ ഒരു സവിശേഷതയായി നമുക്കിതിനെ കണക്കാക്കാം ഒരൊറ്റ പ്രോട്ടീനിന്റെ പരിധിയിൽ സദൃശ്യമാകുന്ന സമാനമായ സ്വഭാവ വൈഭവങ്ങളിലും നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നമ്മൾ ECM പ്രോട്ടീനുകളിൽ പ്രധാനിയായ ഫൈബ്രോനെക്റ്റിനുകളെ പറ്റിയും വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നു മേല്പറഞ്ഞ ഫൈബ്രോനെക്റ്റിൻ എന്നത് കൊളാജെൻ പ്രോട്ടിയോഗ്ലൈക്കൻ പോലുള്ള ഒട്ടനേകം ECM പ്രോട്ടീനുകളുമായി സംബന്ധിക്കാൻ കെല്പുള്ള ഒരു ഡൈമറാണ് കോശങ്ങളുടെ മൈഗ്രേഷൻ ഡിഫറെൻസിയേഷൻ വൂണ്ട് ഹീലിംഗ് പോലെയുള്ള സുപ്രധാന പ്രക്രിയകളിൽ ഇവ സുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് ഫൈബ്രോനെക്റ്റിന്റെ ഘടന അതിന്റെ പ്രവർത്തനക്ഷമതയെ എപ്രകാരം സ്വാധീനിക്കുന്നുവെന്നും നിയതമായ ഫോഴ്സിന്റെ പ്രഭാവത്തിൽ വ്യക്തിഗത ഡൊമെയ്നുകൾ അൺ ഫോൾഡ് ചെയ്യുന്നതിലൂടെ ഇവയുടെ പ്രവർത്തനം എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നുവെന്നും നാം വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഘടനാപരമായി പ്രധാനപ്പെട്ട മൂന്ന് മോഡ്യൂളുകളുള്ള ഫൈബ്രോനെക്റ്റിന്റെ ഒരു ഏകദേശ രൂപഘടന ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് FN 1 FN 2 FN 3 എന്നിങ്ങനെ മൂന്ന് മോഡ്യൂളുകൾ നമുക്ക് കാണാനാകും ഇവ ഓരോന്നും നിശ്ചിത എണ്ണത്തിൽ ആവർത്തിക്കുന്നുമുണ്ട് സമഗ്രമായ ഒരു ഫൈബ്രോനെക്റ്റിൻ തന്മാത്രയിൽ FN 3 മോഡ്യൂൾ തന്നെ ഏതാണ്ട് 28 തവണ പുനരാവർത്തിക്കുന്നതായി നമുക്ക് കാണാനാകും ഈ കാണുന്ന FN 3 എന്ന മോഡ്യൂളിൽ 15 വ്യക്തിഗത ഡൊമെയ്നുകൾ ദൃശ്യമാണ് ഘടനാപരമായി ഇതിൽ കാണപ്പെടുന്ന ഒന്നും രണ്ടും ഡൊമെയ്നുകൾ ഒരു ലിങ്കർ മുഖാന്തരം പരസ്പരബന്ധിതമായി നിലനിൽക്കുന്നവയാണ് ശേഷം 4 മുതൽ 10 വരെയുള്ള ഡൊമെയ്നുകളാണ് കാണപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ച 15 ഡൊമെയ്നുകളിൽ പത്താമത്തെ ഡൊമെയ്നിലാണ് RGD സീക്വൻസുകൾ പ്രവർത്തിക്കുന്നത് കോശങ്ങളിൽ പ്രകടമാകുന്ന എഡ്ഹെഷൻ എന്ന പ്രക്രിയ ക്രമീകരിക്കുന്നതിലും ഇന്റെഗ്രിൻ എന്ന ഘടകങ്ങളുമായി ബന്ധിക്കുന്നതിലും ഇവയ്ക്ക് സുപ്രധാനമായ പങ്കുവഹിക്കാനുണ്ട് ഒന്നും രണ്ടും ഡൊമെയ്നുകൾ മാത്രമല്ല 14 ഉം 15 ഉം ഡൊമെയ്നുകളും ലിങ്കർ മുഖേന പരസ്പരബന്ധിതമായി നിലനിൽക്കുന്നവയാണ് 1 മുതൽ 15 വരെയുള്ള വ്യക്തിഗത ഡൊമെയ്നുകൾക്ക് പുറമെ ഈ ഘടനയുടെ അറ്റത്തായി ഒരു COOH -ഘടകവും ഏതാനും ചില ഡൈ സൾഫൈഡ് ബ്രിഡ്ജുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മെക്കാനിക്കൽ സ്ട്രെച്ച് അക്ഷരാർത്ഥത്തിൽ മോഡ്യൂളുകളുടെയോ അല്ലെങ്കിൽ വ്യക്തിഗത ഡൊമെയ്നുകളുടെയോ അൺ ഫോൾഡിങിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു മേല്പറഞ്ഞ അൺ ഫോൾഡിങ് പ്രക്രിയയിലൂടെ ക്രിപ്റ്റിക് ബൈൻഡിങ് സൈറ്റുകൾ അനാച്ഛാദനം ചെയ്യപ്പെടുകയും അതിലൂടെ മോഡ്യൂളുകൾക്ക് മറ്റ് രാസതന്മാത്രകളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധ്യമാകുകയും സെൽ സിഗ്നലിങ് മെട്രിക്സ് അസംബ്ലി എന്നിവ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത ആയതിനാൽ കലോറിമെട്രി പഠനങ്ങളെ ആസ്പദമാക്കി താപനിലയിൽ ഭേദഗതി സംഭവിക്കുമ്പോൾ വ്യക്തിഗത ഡൊമെയ്നുകളുടെ സംവേദനക്ഷമതയിൽ എപ്രകാരം വ്യതിയാനം ഉടലെടുക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇതിലൂടെ സാധ്യമാകുന്നു മേൽ സൂചിപ്പിച്ച പഠനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇവയൊക്കെയാണ് ഉദാഹരണത്തിന് FN 3 യുടെ മൂന്നാമത്തെ ഡൊമെയ്ൻ 1200 സെൽഷ്യസിലാണ് അൺ ഫോൾഡ് ചെയ്യപ്പെടുന്നത് എന്നാൽ അതെ FN 3 യുടെ തന്നെ പത്താമത്തെ ഡൊമെയ്നാകട്ടെ വളരെ ചുരുങ്ങിയ താപനിലയിലാണ് അൺ ഫോൾഡ് ചെയ്യപ്പെടുന്നത് താഴ്ന്ന നിരക്കിലുള്ള ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ തന്നെ അൺ ഫോൾഡ് ചെയ്യപ്പെടുന്ന FN 10 എന്ന ഡൊമെയ്ൻ അക്ഷരാർത്ഥത്തിൽ തീർത്തും ദുർബ്ബലമാണെന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് ആയതിനാൽ ഇൻ വൈവോ ആയ സന്ദർഭങ്ങളിൽ മിതമായ ഫോഴ്സ് ചെലുത്തി നമുക്ക് ഇവയെ അൺ ഫോൾഡ് ചെയ്യാവുന്നതാണ് ഇതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക ഇവിടെയാണ് നമ്മൾ ഇന്നലെ സംക്ഷിപ്തമായി സൂചിപ്പിച്ച AFM ന്റെ സാധ്യതകൾ തെളിഞ്ഞ് വരുന്നത് സ്ലൈഡ് 0528 കാണുക AFM നെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച ഏതാനുംചില കാര്യങ്ങൾ ഞാനിവിടെ സംഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ കാണുന്നതാണ് AFM ക്യാന്റിലിവർ ഇതിനെ നമ്മൾ AFM ടിപ്പെന്നാണ് വിശേഷിപ്പിക്കുന്നത് മേല്പറഞ്ഞ ടിപ്പുകൾക്ക് ഈ കാണുന്നത് പോലെ വ്യത്യസ്തതരം ജ്യാമിതീയ ആകൃതികൾ കൈകൊള്ളാവുന്നതാണ് ഈ കാണുന്ന തരത്തിലുള്ള ബ്ലണ്ട് പിരമിടൽ ടിപ്പുകളാണ് ഏറെയും പ്രചാരത്തിലുള്ളത് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി ഷാർപ് പിരമിടൽ ടിപ്പുകളും ഉരുണ്ട ആകൃതിയിലുള്ള സ്ഫെറിക്കൽ ടിപ്പുകളും നിലവിലുണ്ട് ആകൃതിയാണ് പ്രധാനമായും ഇവയുടെ ദൃഢത നിർണ്ണയിക്കുന്നത് മാത്രമല്ല പ്രോട്ടീനുകളുടെ അൺ ഫോൾഡിങ് പഠനങ്ങൾക്ക് ഏറ്റവും ഉചിതം നിയതമായ സ്പ്രിങ് കോൺസ്റ്റന്റ് ഉള്ള ടിപ്പുകളാണ് ആയതിനാൽ സ്പ്രിങ് കോൺസ്റ്റന്റിന്റെ മൂല്യം 20 പൈക്കോന്യൂട്ടൺ പെർ നാനോമീറ്റർ Piconewtonnanometer ശ്രേണിയിൽ വന്നാൽ മാത്രമേ നമുക്ക് പ്രോട്ടീനുകളുടെ അൺ ഫോൾഡിങ് പഠനങ്ങൾ സാധ്യമാകൂ കഴിഞ്ഞ ലെക്ച്ചറുകളിൽ സൂചിപ്പിച്ചത് പോലെ മേല്പറഞ്ഞ പഠനങ്ങൾക്ക് നിയതമായ ഒരു പ്രതലം നിർബന്ധമാണ് മേല്പറഞ്ഞ പ്രതലം മൈക്ക അഥവാ ചില്ല് കൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം ഈ കാണുന്ന പ്രോട്ടീൻ തന്മാത്രകൾ ഇവയുടെ ഉപരിതലത്തിൽ നിഷ്ക്രിയമായി ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പ്രോട്ടീൻ അൺ ഫോൾഡിങ് പ്രക്രിയകളെ കുറിച്ച് പഠനം നടത്തുന്നതിനായി വിരളമായ അളവിൽ മാത്രമാണ് നമ്മൾ പ്രോട്ടീൻ ഉപയോഗപ്പെടുത്തുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് കട്ടകുത്തൽ രൂപപ്പെടുന്നത് തടയാൻ സഹായകമാകുന്നു ഇതിലൂടെ ഒരൊറ്റ തന്മാത്രയുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തനത്തിലേർപ്പെടാൻ സാധ്യമാകുന്നു എന്നതാണ് വസ്തുത ഈ കാണുന്ന പ്രതലത്തിൽ ടിപ്പ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നും ഞാൻ നേരത്തെ വ്യക്തമായി വിവരിച്ചിരുന്നുതാണ് നിങ്ങളുടെ കൈവശം ഒരു പ്രതലമുണ്ടെന്ന് കരുതുക അത് ഏത് തരത്തിലുള്ളതുമായിക്കോട്ടെ അതിൽ നമ്മൾ ഒരു പുൾ എക്സ്പെരിമെന്റ് നടത്തുകയാണെന്ന് സങ്കൽപ്പിക്കുക എന്താണ് ഈ പുൾ എക്സ്പെരിമെന്റ് മേല്പറഞ്ഞ പരീക്ഷണത്തിന്റെ ഭാഗമായി ടിപ്പ് താഴേക്ക് ചലിക്കുകയും നിയതമായ ഒരു ക്രിട്ടിക്കൽ ഫോഴ്സിന്റെ പ്രഭാവത്തിൽ നിശ്ചലമാകുകയും ക്രമേണ മുകളിലേക്ക് ഉയർന്ന് വരുകയും ചെയ്യുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു അങ്ങനെയെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻഡെന്റിന്റെ ഭാഗം ഇത് റിട്രാക്ടിന്റെ ഭാഗമാണ് ദൃഢമായ ഒരു പ്രതലത്തിൽ പ്രകടമാകുന്ന ഒരു ലക്ഷണമൊത്ത ഫോഴ്സ് കർവാണിത് ഇവിടെ Z പൊസിഷൻ അഥവാ Z പോസിനെ ഡിഫ്ലെക്ഷന് എതിരായാണ് നമ്മൾ ഗണിക്കുന്നത് ഈ കാണുന്ന ലേസറിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികൾ ടിപ്പിന്റെ പിൻവശത്ത് നിന്നും പ്രതിഫലിക്കപ്പെടുകയും അവയെ ഒരു ഫോട്ടോ ഡിറ്റക്ടറിന്റെ സഹായത്താൽ പിടിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത് ഈ കാണുന്നത് ഒരു ഫോട്ടോ ഡിറ്റക്ടറാണ് ഇതാണ് നിങ്ങളുടെ ലേസറിന്റെ ഉറവിടം അന്തിമമായി ഏതാണ്ട് ഇത് പോലെ കാണപ്പെടുന്ന ഒരു Z പൊസിഷൻ vs ഡിഫ്ലെക്ഷൻ കർവാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിൽ A B C D എന്നിങ്ങനെ ബിന്ദുക്കൾ ദൃശ്യമാണ് ഇതിൽ A മുതൽ B വരെയും F മുതൽ G വരെയുള്ള ഭാഗത്ത് ടിപ്പ് യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഇന്റർവീനിങ് സ്പേസുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ കാണുന്ന ഇടങ്ങളിൽ ഇവ പ്രതലവുമായി സമ്പർക്കം പുലർത്തുന്നില്ല എന്ന് സാരം എന്നാൽ B മുതൽ C വരെയുള്ള ഭാഗങ്ങളിൽ ടിപ്പ് അക്ഷരാർത്ഥത്തിൽ പ്രതലവുമായി ബന്ധപ്പെടുകയും സാംപിളിനെ ഇൻഡെന്റ് അഥവാ ഡിഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആയതിനാൽ പ്രോട്ടീനിന്റെ അൺ ഫോൾഡിങ് പഠനങ്ങളുടെ ഭാഗമായി നമ്മൾ കർവിന്റെ ഈ കാണുന്ന റിട്രാക്ഷൻ എന്ന ഭാഗത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഉപരിതലത്തിലേക്ക് നിഷ്ക്രിയമായി ആഗിരണം ചെയ്യപ്പെടുന്ന പ്രോട്ടീനുകളാണിവ പ്രതലത്തിന്റെ ഇമേജിങ് നടത്താതെ മേല്പറഞ്ഞ പ്രോട്ടീനുകളെ AFM ലൂടെ വീക്ഷിക്കുക സാധ്യമല്ല കാരണം ഇവ ഒപ്റ്റിക്കൽ ഡിറ്റക്ടീവ് എലമെന്റിന്റെ പരിധിയിൽ നിന്നും വീക്ഷ്ണപരമായി തീർത്തും താഴെ തട്ടിലാണ് സ്ഥിതിചെയ്യുന്നത് ഇവയുടെ മുകളിൽ കൃത്യമായി ടിപ്പ് കേന്ദ്രീകരിക്കുന്ന തരത്തിൽ സജ്ജമാക്കുക എന്നത് പ്രസ്തുത സന്ദർഭത്തിൽ വളരെയേറെ പ്രയാസമേറിയ ദൌത്യമാണ് മേല്പറഞ്ഞ സാഹചര്യത്തിൽ ഒരു അന്ധനെ പോലെ എന്തെങ്കിലും ഉയർന്നുവരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് പ്രതലത്തിന്റെ ഒന്നിലധികം വ്യത്യസ്ത സ്ഥാനങ്ങളിൽ തട്ടികൊടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പുള്ളിങ് സൈക്കിളിൽ പ്രോട്ടീനുകളിൽ ഏതെങ്കിലുമൊന്നിൽ സ്പർശിക്കാൻ ഇടവന്നാൽ അത് നമ്മൾ എപ്രകാരമാണ് തിരിച്ചറിയുന്നത് ഇതിനായി ഒരു തവണ കൂടി ഞാൻ ഫോഴ്സ് കർവ് വരയ്ക്കുകയാണ് മേല്പറഞ്ഞ ടിപ്പ് പ്രോട്ടീനിൽ സ്പർശിക്കാത്ത പക്ഷം നമുക്ക് A B C D E F എന്ന രീതിയിലുള്ള ഒരു കർവാകും ലഭ്യമാകുക അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ഒരു നിയതമായ പീക്ക് ലഭിക്കും ഇനി ഇപ്പോൾ ടിപ്പ് വായുവിലൂടെ സഞ്ചരിക്കുകയാണെന്ന് കരുതുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് A ക്കും B ക്കും ഇടയിലുള്ള ഒരു ബിന്ദുവിലേക്ക് നമ്മൾ നീങ്ങുകയാണെന്ന് ധരിക്കുക ഇപ്പോൾ ഉപരിതലത്തിൽ നമ്മൾ സ്പർശിക്കുന്നതായി ദൃശ്യമാകും ടിപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതലം കൂടുതൽ ദൃഢമായതിനാൽ അധികം മുന്നോട്ട് ചെല്ലുന്തോറും ടിപ്പ് വളയുന്നതായി നമുക്ക് കാണാനാകും എന്നതാണ് വസ്തുത ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഒരു 450 സ്ലോപ്പുള്ള ഒരു നേർരേഖയാണ് എന്ത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ടിപ്പിന്റെ ആകൃതിയിൽ രൂപാന്തരം കൊണ്ടുവരുന്ന ദൂരവും നമ്മൾ സഞ്ചരിക്കുന്ന ദൂരവും സമാനമാണ് എന്നതാണ് വസ്തുത ഇപ്പോൾ ലഭിച്ച തുകയെ നമുക്ക് ഇൻ വോൾസ് അഥവാ ഇൻവേഴ്സ് ഒപ്റ്റിക്കൽ ലിവർ സെൻസിറ്റിവിറ്റിയിലേക്ക് കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ് എന്താണ് ഈ ഇൻവേഴ്സ് ഒപ്റ്റിക്കൽ ലിവർ സെൻസിറ്റിവിറ്റി മേല്പറഞ്ഞ ഉപകരണം വോൾട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തുക കണക്കാക്കുന്നത് എന്നാൽ നമുക്കാവശ്യം നാനോമീറ്റർ പരിധിയിൽ ഗണിക്കപ്പെടുന്ന ഡിഫ്ലെക്ഷനാണ് മേല്പറഞ്ഞ കാലിബ്രേഷനിലൂടെ മാത്രമേ നിങ്ങൾക്ക് വോൾട്ടിൽ നിന്ന് നാനോമീറ്ററിലേക്കുള്ള പരിവർത്തനം സാധ്യമാകുകയുള്ളൂ ഇതിനായി കർവിന്റെ ഈ കാണുന്ന ഭാഗമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ C എന്ന ബിന്ദുവിൽ എത്തിയിട്ടും പരമാവധി നിരക്കിൽ സാംപിളിനുമേൽ പ്രഹരമേല്പിക്കുന്നത് തുടർന്നാൽ ഒരു ഘട്ടമെത്തുമ്പോൾ ടിപ്പ് ഒടിഞ്ഞുപോകുന്നതായി നമുക്ക് കാണാനാകും മേല്പറഞ്ഞ പ്രവണത നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഡിഫ്ലെക്ഷൻ സെറ്റ് പോയിന്റ് ഉപയോഗപ്പെടുത്തുന്നത് ഇതിലൂടെ സ്ഥാനചലനം അതുപോലെ ടിപ്പിൽ പ്രകടമാകുന്ന പരമാവധി ഡിഫ്ലെക്ഷൻ എന്നിവയുടെ നിരക്ക് നമുക്ക് നിയന്ത്രിക്കാനാകും മേൽ സൂചിപ്പിക്കപ്പെട്ട ഡിഫ്ലെക്ഷന്റെ പരിധിക്കപ്പുറം ടിപ്പ് താഴേക്ക് ചലിക്കാതിരിക്കുവാനും പകരം അവയെ പഴയപടി പുനഃരുപയോഗത്തിനായി ഉപരിതലത്തിലേക്ക് പിൻവലിക്കുവാനും ഇതിലൂടെ സാധ്യമാകുന്നു എന്നതാണ് വസ്തുത ഡിഫ്ലെക്ഷന്റെ പരമാവധി നിരക്കായ C എന്ന ബിന്ദുവിൽ എത്തിയാൽ പിന്നീട് അവ റിട്രാക്ട് ചെയ്യുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു ടിപ്പ് ഉയർന്ന് വരുന്നതിന്റെ ഫലമായി ഫോഴ്സ് കർവിന്റെ D മുതൽ E വരെയുള്ള ഭാഗത്ത് ഒരു വലിയ പീക്ക് പ്രകടമാകുന്നതായി നമുക്ക് കാണാനാകും എന്ത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് പ്രതലത്തിൽ നിങ്ങൾ ഇൻഡെന്റ് ചെയ്യുമ്പോൾ ഉടലെടുക്കുന്ന ചില നിർദ്ദിഷ്ട അവ്യക്തമായ ബോണ്ടുകളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണമായി ഭവിക്കുന്നത് ടിപ്പുകൾ മുകളിലേക്ക് ഉയർന്ന് വരുന്നതിന്റെ ഭാഗമായി മേല്പറഞ്ഞ ബോണ്ടുകളെ ഭേദിക്കേണ്ടതായിട്ടണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ ഈ ഫോഴ്സ് പീക്കെന്നത് അക്ഷരാർത്ഥത്തിൽ നോൺ സ്പെസിഫിക് എഡ്ഹെഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഫോഴ്സ് കർവ് ഇത്തരത്തിലുള്ള ഒന്നാണെന്ന് സങ്കൽപ്പിക്കുക ഈ കാണുന്ന ഭാഗം ഞാൻ വേറിട്ടൊരു നിറത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇവിടെ റിട്രാക്ഷൻ സംഭവിക്കുമ്പോൾ അനവധി മുനമ്പുകൾ രൂപപ്പെടുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു ഇവയെ സോ ടൂത് പാറ്റേണുകൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് പ്രോട്ടീനിന്റെ അൺ ഫോൾഡിങ് എന്ന പ്രക്രിയയുമായി സംബന്ധിച്ചാണ് ഇത് പ്രകടമാകുന്നത് ആയതിനാൽ ഇത്തരമൊരു കർവ് ലഭ്യമായാൽ പ്രോട്ടീനിൽ അൺ ഫോൾഡിങ് സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനാകും എന്നാൽ സാധാരണഗതിയിൽ അൺ ഫോൾഡിങ് പഠനങ്ങളുടെ ഭാഗമായി നമ്മൾ ഇത്തരത്തിൽ ഡാറ്റ പ്ലോട്ട് ചെയ്യുക പതിവില്ല എന്നാൽ കർവിന്റെ ഈ വശമാണ് നിങ്ങൾക്ക് താല്പര്യം ജനിക്കുന്ന ഭാഗമെങ്കിലും നിങ്ങൾ കർവ് വരയ്ക്കേണ്ടത് ഇപ്രകാരമാണ് മേല്പറഞ്ഞ കർവിൽ നിന്നും ഈ കാണുന്ന ഭാഗം മുറിച്ച് മാറ്റി ഇതിനെ നമുക്ക് തലകീഴായി ഫ്ളിപ് ചെയ്യാം ഇതിലൂടെ നമുക്ക് രണ്ട് പ്രതിഫലനങ്ങൾ അഥവാ മിറർ റിഫ്ലെക്ഷൻസ് ലഭ്യമാകുന്നു ഈ കാണുന്ന ആക്സിസിനെ ആധാരമാക്കി പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ മുകളിലേക്കും എന്നാൽ ഇവിടെ കാണപ്പെടുന്ന ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തി ക്രമീകരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കർവാണ് നമുക്ക് ലഭ്യമാകുക പ്രോട്ടീൻ ഫോൾഡിങിനെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭ്യമാക്കുന്ന കർവും ഇത് തന്നെയാണ് എന്ത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഘടന ഇവിടെ ഉടലെടുക്കുന്നത് എന്ത് കൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രോട്ടീനിന്റെ അൺ ഫോൾഡിങ് പ്രക്രിയയുടെ മുഖമുദ്രയായി കണക്കാക്കുന്നത് ഇതിനായി നമുക്ക് ഒരു പ്രോട്ടീനിന്റെ ഏകദേശരൂപം കണക്കിലെടുക്കാം ഈ കാണുന്ന പ്രതലത്തിന്റെ ഉപരിതലത്തിൽ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് കരുതുക ഇതാണ് നിങ്ങളുടെ ടിപ്പ് സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണെങ്കിൽ മേല്പറഞ്ഞ പ്രോട്ടീനിൽ പ്രസ്തുത രൂപഘടനയാണ് ഉള്ളതെന്ന് നമുക്ക് അനുമാനിക്കാം ഈ കാണുന്നത് അതിന്റെ ഡൈ സൾഫൈഡ് ബോണ്ടുകളാണ് അക്ഷരാർത്ഥത്തിൽ ഞാനിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്ന് വ്യക്തിഗത ഫോൾഡഡ് ഡൊമെയ്നുകളുള്ള ഒരു സാങ്കൽപ്പിക പ്രോട്ടീനാണ് നേരത്തെ സൂചിപ്പിച്ച ടിപ്പാണിത് പ്രോട്ടീനിൽ ടിപ്പ് സ്പർശിക്കുന്ന ഇടങ്ങളെന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല ആയതിനാൽ അവയ്ക്ക് ഏത് വശത്ത് നിന്നും മേല്പറഞ്ഞ പ്രോട്ടീനിനുമേൽ സ്പർശിക്കാവുന്നതാണ് മേൽ സൂചിപ്പിക്കപ്പെട്ട ടിപ്പിന്റെ പ്രവർത്തനത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താൻ സാധ്യമല്ല എന്ന് സാരം ഇപ്പോൾ നിങ്ങളുടെ ടിപ്പ് ഈ കാണുന്ന പ്രോട്ടീനിനുമേൽ സമ്പർക്കം പുലർത്തിയെന്ന് തന്നെ സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കർവിൽ എന്ത് വ്യത്യാസമാണ് പ്രകടമാകുക നിയതമായ ഘടനയുള്ള ഒരു പ്രോട്ടീൻ നിങ്ങൾക്ക് മുൻപിലുണ്ട് മേല്പറഞ്ഞ ടിപ്പ് അതിനുമേൽ സ്പർശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ പരമാവധി സെറ്റ് പോയിന്റിൽ എത്തിനിൽക്കുന്നതായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇവിടെ നിന്നും ടിപ്പ് മുകളിലേക്ക് ഉയരേണ്ടതുണ്ട് ടിപ്പ് മുകളിലേക്ക് ഉയരാൻ ആരംഭിച്ചുകഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉടലെടുക്കുക മേല്പറഞ്ഞ പ്രോട്ടീൻ ഉപരിതലത്തിൽ ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞതിനാൽ ഈ കാണുന്ന ബിന്ദുവിൽ നിന്നും ഈ കാണുന്ന ബിന്ദുവിലേക്ക് ടിപ്പിന്റെ സഞ്ചാരം സൌകര്യപ്രദമാക്കുവാൻ പ്രോട്ടീനിനും ടിപ്പിനും ഇടയിൽ അനുഭവപ്പെടുന്ന എഡ്ഹെഷന്റെ നോൺ സ്പെസിഫിക് ബോണ്ടുകൾ നമ്മൾ ഫലപ്രദമായി നിഷ്ക്രിയമാക്കേണ്ടതുണ്ട് ഈ സമയം തന്നെയാണ് നിങ്ങൾ ടിപ്പിനെ പിൻവലിക്കേണ്ടതും ഇതിനെയാണ് നമ്മൾ ആദ്യ നടപടിയായി കണക്കാക്കുന്നത് രണ്ടാമത്തെ നടപടിയുടെ ഭാഗമായി ടിപ്പ് മുകളിലേക്ക് ഉയരുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു ഇവിടെ ഈ കാണുന്ന ഭാഗവും ഇതും തമ്മിൽ ബന്ധിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഇവ കാര്യക്ഷമമായി പ്രവർത്തനത്തിലേർപ്പെടുന്നു എന്ന് നമുക്ക് പറയാനാകും എന്നാൽ പ്രോട്ടീൻ മുഴുവനായും പ്രതലത്തിൽ നിന്നും വിട്ടുവന്നാൽ ഇവ മൊത്തമായി അടർന്ന് വരികയും അതിലൂടെ ലഭ്യമാകേണ്ടിയിരുന്ന കാര്യമായ വിവരങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകുകയും ചെയ്യുന്നു പ്രോട്ടീനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പ്രതലവുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നത് പ്രധാനമാണ് അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം പ്രോട്ടീനിന്റെ ഒരറ്റം ഉപരിതലത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം മേല്പറഞ്ഞ പ്രോട്ടീനിനെ റബ്ബർ ബാൻഡ് പോലുള്ള ഒരു ചങ്ങലയായി നമുക്ക് സങ്കൽപ്പിക്കാം ഇവിടെ രണ്ടറ്റങ്ങളും ദൃഢമാണ് ഈ കാണുന്ന രണ്ട് ഭാഗങ്ങളും ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ ടിപ്പിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവ ഈ കാണുന്ന ഡൈ സൾഫൈഡ് ബോണ്ടുകൾക്ക് മേൽ നിയതമായ ബലം പ്രയോഗിക്കുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഫോഴ്സ് ചെലുത്തുന്നതിന് തുല്യമാണിത് ഈ കാണുന്ന ഭാഗം ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ് അതിൽ നിന്നും ടിപ്പ് വിട്ടുപോരുവാൻ ശ്രമിക്കുകയാണെന്നും നമുക്ക് കാണാനാകും ഈ കാണുന്ന ഭാഗം ദൃഢമായി ബന്ധിച്ചിരിക്കുകയായതിനാൽ ഇവിടെ ഉടലെടുക്കുന്ന ഫോഴ്സ് ഡൈ സൾഫൈഡ് ബോണ്ടുകളിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെടുകയും ക്രമേണ അവ തകർക്കുകയും ചെയ്യുന്നു മേല്പറഞ്ഞ സാഹചര്യത്തിൽ വ്യക്തിഗത ഡൊമെയ്നുകൾ ഒന്നിന് പുറകെ ഒന്നായി അൺ ഫോൾഡ് ചെയ്യപ്പെടുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു നേരത്തെ സൂചിപ്പിച്ച സോ ടൂത് പ്രൊഫൈൽ ഞാൻ ഓരോന്നായി വരയ്ക്കുകയാണ് നമ്മുടെ സാങ്കൽപ്പിക പ്രോട്ടീനിന് മേല്പറഞ്ഞ പ്രത്യേക സാഹചര്യത്തിൽ മൂന്ന് ഡൊമെയ്നുകൾ മാത്രമാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആയതിനാൽ ഞാനിവിടെ മൂന്ന് പീക്കുകൾ മാത്രമാണ് ഇപ്പോൾ വരയ്ക്കുന്നത് മാത്രമല്ല ഡിഫ്ലെക്ഷനെ സൂചിപ്പിക്കുന്ന രണ്ട് അധിക പീക്കുകളും നമുക്കിവിടെ കാണാവുന്നതാണ് ഈ കാണുന്ന പീക്ക് പ്രോട്ടീനിനും പ്രതലത്തിനുമിടയിൽ അനുഭവപ്പെടുന്ന നോൺ സ്പെസിഫിക് എഡ്ഹെഷൻ ഖണ്ഡിക്കാൻ ആവശ്യമായ ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ ഈ കാണപ്പെടുന്ന അന്തിമ പീക്കാകട്ടെ പ്രോട്ടീൻ ടിപ്പിൽ നിന്നും വേർപെടുമ്പോൾ പ്രകടമാകുന്ന ഒന്നാണ് നമുക്ക് ലഭ്യമാകുന്ന യഥാർത്ഥ ഡാറ്റ എന്നത് അക്ഷരാർത്ഥത്തിൽ ഈ കാണുന്ന 1 2 3 എന്നിങ്ങനെയുള്ള പീക്കുകളാണ് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ഈ കാണുന്ന പ്രസ്തുത പീക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ ടിപ്പിനെ പതിയെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കൈക്കൊള്ളുന്നത് എന്ന് സാരം നിയതമായ ഫോഴ്സ് ചെലുത്തുമ്പോൾ ബോണ്ട് വലിയുന്നതായി നമുക്ക് കാണാനാകുകയും ഫോഴ്സിന്റെ ശക്തമായ പ്രഭാവത്തിൽ ക്രമേണ ബോണ്ട് തകരുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ തത്സമയം ഫോഴ്സിന്റെ നിരക്കിൽ ഒരു ഡ്രോപ്പ് പ്രകടമാകുന്നതായി നമുക്ക് കാണാനാകുന്നു ഇവിടെ ദൃശ്യമാകുന്ന പീക്ക് അക്ഷരാർത്ഥത്തിൽ ബോണ്ട് സ്ട്രെച്ചിങിനെയാണ് സൂചിപ്പിക്കുന്നത് ആയതിനാൽ ബോണ്ട് തകരുന്നതോടുകൂടി തൽക്ഷണം ഫോഴ്സിന്റെ നിരക്കിലും സമാനമായ പ്രതിഫലനമുണ്ടാകുന്നു നിങ്ങളുടെ കൈവശം അനവധി ഡൊമെയ്നുകളുണ്ടെന്ന് കരുതുക ഉദാഹരണത്തിന് നമുക്ക് ഈ കാണുന്ന മൂന്ന് ഡൊമെയ്നുകളുടെ കാര്യം തന്നെയെടുക്കാം ഇതേറ്റവും ശക്തമാണെന്നും എന്നാൽ ഇത് താരതമ്യേന ദുർബ്ബലമാണെന്നും സങ്കൽപ്പിക്കുക ഒരേ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം സ്പ്രിങുകൾക്ക് സമാനമായ പ്രതീതിയാണ് നിയതമായ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത് മേല്പറഞ്ഞ സന്ദർഭത്തിൽ ശക്തമായ ഫോഴ്സിന്റെ സാന്നിധ്യത്തിൽ ആദ്യം ദുർബ്ബലമായ ലിങ്കുകൾ അൺ ഫോൾഡ് ചെയ്യപ്പെടുകയും ശേഷം മാത്രമേ ദൃഢമായ ലിങ്കുകളിൽ അൺ ഫോൾഡിങ് സാധ്യമാകുകയുള്ളൂ ഞാൻ നേരത്തെ വരച്ച ഫോഴ്സ് കർവിൽ പരാമർശിച്ചത് പോലെ മൂന്ന് ഡൊമെയ്നുകൾ മാത്രമുള്ള ഒരു പ്രോട്ടീനിൽ നമുക്ക് 32 പീക്കുകളാണ് ലഭ്യമാകുന്നത് ഇവിടെ നമുക്ക് ഒരു ഡാറ്റ പീക്ക് മാത്രമാണ് ദൃശ്യമാകുന്നത് കാരണം പ്രസ്തുത പ്രോട്ടീനിന് ഇപ്രകാരമൊരു രൂപഘടനയാണ് ഉള്ളതെങ്കിൽ ടിപ്പിന് ഇതിനിടയിലുള്ള ഏതെങ്കിലും ഭാഗങ്ങളിൽ സമ്പർക്കം പുലർത്തുവാൻ സാധ്യമാകുന്നു എന്നതാണ് വാസ്തവം അത്തരമൊരു സാഹചര്യത്തിൽ ടിപ്പ് അതിനെ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന രൂപഘടനയെന്നത് ഏതാണ്ട് ഇതുപോലെയിരിക്കും പ്രോട്ടീനിന്റെ ഈ കാണുന്ന ഭാഗത്ത് യാതൊരു തരത്തിലുള്ള ഫോഴ്സുകളും അനുഭവപ്പെടുന്നില്ല ചുരുക്കിപ്പറഞ്ഞാൽ മേല്പറഞ്ഞ സാഹചര്യത്തിൽ പ്രഥമഃ ഡൊമെയ്നിൽ അൺ ഫോൾഡിങ് സാധ്യമാകുന്നില്ല എങ്കിലും രണ്ടും മൂന്നും ഡൊമെയ്നുകളിൽ അൺ ഫോൾഡിങ് പ്രകടമാകുന്നുണ്ട് എന്നാൽ ഞാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാണപ്പെടുന്ന രണ്ട് ഡൊമെയ്നുകൾ സ്ട്രെച്ച് ചെയ്യാതെ തന്നെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ ഞാൻ പ്രസ്തുത ലെക്ച്ചറിലെ ചർച്ചയ്ക്ക് വിരാമമിടുകയാണ് ചുരുക്കിപ്പറയുകയാണെങ്കിൽ പ്രോട്ടീൻ അൺ ഫോൾഡിങ് പഠനങ്ങൾക്കായി AFM എപ്രകാരം ഉപയോഗപ്പെടുത്താമെന്നും പ്രോട്ടീൻ അൺ ഫോൾഡിങ് പ്രക്രിയയുടെ സൂചന എന്തെന്നും നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിലൂടെ ലഭ്യമായ ഡാറ്റ എങ്ങനെ വിശകലനം ചെയ്യാമെന്നും ഫൈബ്രോനെക്റ്റിനിൽ സംഭവിക്കുന്ന പ്രോട്ടീൻ അൺ ഫോൾഡിങ് പഠനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് നയിക്കാൻ നാം വികസിപ്പിക്കേണ്ട പ്രോട്ടീൻ കൺസ്ട്രക്ടുകളുടെ മാതൃകയും നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും